അതിനാൽ ക്ലോക്ക് ട്രീ ഡിസൈനിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരുന്നു ഞങ്ങളുടെ അവസാന പ്രഭാഷണ വേളയിൽ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾ ഒരു ക്ലോക്ക് ട്രീ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള എച്ച് ട്രീ എക്സ് ട്രീസമീപനങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഈ രണ്ട് സമീപനങ്ങളും അടിസ്ഥാനപരമായി ഒരു 4 അറേ ട്രീ ഘടന രൂപകൽപ്പന ചെയ്യുകയായിരുന്നു ഓരോ നോഡും ഓരോ ഘട്ടത്തിലും 4 മറ്റ് നോഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ടെർമിനൽ പോയിന്റുകളുടെയോ സിങ്കുകളുടെയോ എണ്ണം 4 4 16 64 256 തുടങ്ങിയവയുടെ ശക്തിയായി വളർന്നു ഈ 2 രീതികൾ അടിസ്ഥാനപരമായി ക്ലോക്ക് ടെർമിനലുകളുടെകൃത്യമായ സ്ഥാനം പരിഗണിച്ചില്ല ഇത് സ്വതന്ത്രമായി മരം രൂപകൽപ്പന ചെയ്യുകയും സൃഷ്ടിക്കുകയും ചിപ്പിന്റെ ഉപരിതലത്തിലുടനീളം ഒരു സാധാരണ സിങ്ക് ലൊക്കേഷൻനിർമ്മിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന അൽഗോരിതങ്ങൾ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കുന്നത് യഥാർത്ഥ ക്ലോക്ക് ടെർമിനൽ പോയിന്റുകളുടെസ്ഥാനങ്ങൾ അവർ അവഗണിക്കുന്നില്ല പകരം അവർ എന്താണ് ചെയ്യുന്നത് ക്ലോക്കുകൾ യഥാർത്ഥ ക്ലോക്ക് ടെർമിനൽ പോയിന്റ്അല്ലെങ്കിൽ സിങ്കുകൾ എവിടെയാണ് അയക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ക്രമമായി ഒരു മരം നിർമ്മിക്കാൻ ശ്രമിക്കാം അതിനാൽ ആ വൃക്ഷം പലതും H പോലെ കാണപ്പെടുന്നു X പോലെ തോന്നിയേക്കില്ല പക്ഷേ അത് ഒരു ട്രീ ആയിരിക്കും അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രീതികൾക്ക് പിന്നിലെ അടിസ്ഥാന ആശയം ഇതാണ് അതിനാൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ആദ്യത്തെ രീതിയെ വിളിക്കുന്നു മാർഗ്ഗത്തിന്റെയും മാധ്യമങ്ങളുടെയും രീതി അല്ലെങ്കിൽ MMM H ട്രീ അൽഗോരിതം പോലെ ഒരു തന്ത്രം പിന്തുടരുന്നു എന്നതാണ് ഇവിടെ ആദ്യത്തെ സാമ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള എവിടെയും സിങ്ക് ലൊക്കേഷനുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന അർത്ഥത്തിൽ തന്ത്രം കാരണം H ട്രീ ഞങ്ങൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് മികച്ചതും മികച്ചതും മികച്ചതുമായ ലൊക്കേഷനുകളുടെ പോയിന്റുകൾ 4 ന്റെ ശക്തിയായി ലഭിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിലുള്ള വൃക്ഷം സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾക്ക് യഥാർത്ഥ ക്ലോക്ക് ടെർമിനൽ പോയിന്റിന് വളരെ അടുത്തുള്ള ഒരു പോയിന്റ് ലഭിക്കും അതിനാൽ ഈ രീതിയിൽ ഈ എംഎംഎമ്മിനെ ചുരുക്കത്തിൽ വിളിക്കുന്നു നിങ്ങൾ മീഡിയൻ കണക്കുകൂട്ടുകയും തുടർച്ചയായി അർത്ഥമാക്കുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാന ആശയം മീഡിയനുകളും മാർഗ്ഗങ്ങളും കണക്കാക്കുന്ന രീതി നിങ്ങൾ എങ്ങനെയാണ് മീഡിയൻ കണക്കുകൂട്ടുന്നത് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഞാൻ ഇത് വിശദീകരിക്കുന്ന ഒരു പ്രത്യേക ഉദാഹരണം നോക്കാം അതിനാൽ എനിക്ക് ഒരു കൂട്ടം പോയിന്റുകൾ ഉണ്ടെന്ന് നമുക്ക് പരിഗണിക്കാം അതിനാൽ ഈ പോയിന്റുകളിൽ ഓരോന്നിനും ഒരു ഗ്രിഡ് പോലുള്ള ഘടനയിൽ ചില കോർഡിനേറ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ കോർഡിനേറ്റുകൾ കുറിക്കുന്നു 2 2 2 7 4 3 4 5 6 4 7 7 10 2 9 5 അതിനാൽ ഈ ഓരോ പോയിന്റുകളും നിങ്ങൾ കാണുന്നു അവിടെ ചില x കോർഡിനേറ്റുകളും വൈ കോർഡിനേറ്റുകളുംഉണ്ട് നിങ്ങൾക്ക് ഒരു കൂട്ടം പോയിന്റുകളോ ഒരു കൂട്ടം സംഖ്യകളോ ഉള്ളപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ എനിക്ക് ഒരു കൂട്ടം ഇനങ്ങൾ ഉണ്ടെന്ന് പറയട്ടെ അതിനാൽ ഞാൻ ഒരു മീഡിയൻ എടുക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പോൾ മീഡിയന്റെ നിർവചനം എന്താണ് മീഡിയൻ എന്നാൽ ഇടതുവശത്തുള്ള മൂലകങ്ങളുടെ എണ്ണവും വലതുവശത്തുള്ള മൂലകങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കണം അതിനാൽ ഇവിടെയും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യം കണക്കുകൂട്ടാൻ ശ്രമിക്കുന്നു അതിനാൽ x കോർഡിനേറ്റുകളോടുള്ള ആദരവോടെ എനിക്ക് മീഡിയൻ കണക്കാക്കാൻ കഴിയുന്ന y കോർഡിനേറ്റുകളെ മാനിച്ച് എനിക്ക് മീഡിയൻ കണക്കാക്കാം നിങ്ങൾ x കോർഡിനേറ്റുകൾ 2 2 4 4 നോക്കിയാൽ നിങ്ങൾ കാണുന്നതുപോലെ ഞാൻ x കോർഡിനേറ്റുകൾ 2 2 4 4 6 7 9 10 എഴുതുന്നു അതിനാൽ ഞാൻ അവയെ തരംതിരിച്ച് എഴുതുന്നു അവരുടെ x കോർഡിനേറ്റുകൾ വഴി അതിനാൽ ആദ്യത്തെ 4 എനിക്ക് ആദ്യ പാർട്ടീഷനിൽ സൂക്ഷിക്കാം രണ്ടാമത്തേത് മറ്റ് പാർട്ടീഷനിൽ അതിനാൽ ഞാൻ മീഡിയൻ കണക്കുകൂട്ടുകയാണെങ്കിൽ x കോർഡിനേറ്റുകളെ സംബന്ധിച്ച് അതിനാൽ മധ്യ പോയിന്റ് ഇതായിരിക്കും അതുപോലെ അവരുടെ y കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ അവരുടെ y കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് അടുക്കുകയാണെങ്കിൽ ആദ്യം ഇത് 2 ആയിരിക്കും പിന്നീട് 2 വീണ്ടും മറ്റൊരു 2 ഉം 3 4 ഉം 5 5 7 7 അതിനാൽ നിങ്ങൾ വീണ്ടും മുറിക്കുകയാണെങ്കിൽ മധ്യത്തിൽ 2 2 3 4 ൽ 1 ആയിരിക്കും അതിനാൽ ലംബമായി നിങ്ങൾക്ക് മീഡിയൻ കണ്ടെത്തണമെങ്കിൽ മീഡിയൻ ഇതായിരിക്കും അതിനാൽ നിങ്ങൾ മീഡിയൻ x അല്ലെങ്കിൽ y ആയി കണക്കാക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു കൂട്ടം പോയിന്റുകളെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു അതിനാൽ മീഡിയൻ കണക്കുകൂട്ടുന്നതിനു പിന്നിലെ പ്രധാന ആശയം ഈ അവകാശമാണ് അതിനാൽ ടെർമിനലുകളുടെ ഗണത്തെ തുല്യ വലിപ്പത്തിലുള്ള 2 ഉപവിഭാഗങ്ങളായി വിഭജിക്കുന്ന ആദ്യ ഘട്ടമാണിത് വിഭജിക്കപ്പെട്ട ഉപവിഭാഗങ്ങളുടെ പിണ്ഡത്തിന്റെ കേന്ദ്രവുമായി മുഴുവൻ സെറ്റിന്റെയും പിണ്ഡത്തിന്റെ മധ്യഭാഗത്തെ ബന്ധിപ്പിക്കുക നമുക്കും ഇത് ചിത്രീകരിക്കാം അതിനാൽ ആദ്യ ഭാഗം മീഡിയൻ ആണ് അടുത്ത ഭാഗം ശരാശരി ആണ് ഞാൻ വിഭജിച്ചുവെന്ന് കരുതുക അത് ചുവന്ന വിഭജനത്തിലാണ് നമുക്ക് ഈ വിഭജനം പരിഗണിക്കാം അതിനാൽ എനിക്ക് ഇടതുവശത്ത് 4 പോയിന്റുകളും വലതുവശത്ത് 4 പോയിന്റുകളുമുണ്ട് നിങ്ങൾ എടുക്കുന്ന ശരാശരി 4 x കോർഡിനേറ്റുകൾ എടുക്കുക 2 2 4 4 2 2 4 4 എന്താണ് ശരാശരി 3 6 7 9 10 അപ്പോൾ ശരാശരി എത്രയാണ് ശരാശരി 8 അതിനാൽ നിങ്ങളുടെ 3 8 ശരാശരി ആയിരിക്കും അതിനാൽ 3 ആകാം 10 നിങ്ങൾ y കോർഡിനേറ്റുകൾ നോക്കിയാൽ y കോർഡിനേറ്റുകൾ 2 3 5 7 അങ്ങനെ 5 10 17 ബൈ 4 ഏകദേശം 4 ഇത് x ആണ് ഇത് y ശരാശരിയാണ് വലത് വശം 4 2 6 11 18 അതിനാൽ ഇത് ഏകദേശം 5 4 നും ഇടയിൽ എന്ന് നമുക്ക് പറയാം അതിനാൽ 3 4 ഉം 8 5 ഉം ആണ് ശരാശരി അതിനാൽ 3 1 2 3 4 ഇതാണ് 3 4 8 5 3 4 5 6 7 8 1 2 3 4 5 ഇതാണ് അതിനാൽ ആശയം ഇപ്രകാരമാണ് അതിനാൽ മീഡിയൻ കണക്കാക്കിയ ശേഷം നിങ്ങൾ അതിനെ 2 ഉപവിഭാഗങ്ങളായി വിഭജിക്കുന്നു ഓരോ ഉപവിഭാഗത്തിലും നിങ്ങൾ പോയിന്റുകൾക്കൊപ്പം മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ വിളിക്കുന്നതെന്തെങ്കിലും പിണ്ഡത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ കേന്ദ്രംകണ്ടെത്താൻ ഏകദേശം x y എന്നിവയുടെ ശരാശരി എടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ 2 പിണ്ഡങ്ങളുടെ കേന്ദ്രത്തെ ഒരു നേർരേഖയിൽ ബന്ധിപ്പിക്കുന്നു നിങ്ങൾ ഇത് ആവർത്തിച്ച് തുടരുക അതിനാൽ വീണ്ടും ഇടത് ഉപവിഭാഗം നിങ്ങൾ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു വലത് ഉപവിഭാഗങ്ങൾ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു ശരിയാണ് അതിനാൽ നിങ്ങൾ തുടർച്ചയായി കംപ്യൂട്ടിംഗ് മാർഗങ്ങളും മീഡിയനുകളും ആയതിനാൽ മീഡിയൻസ് എന്നാൽ വീണ്ടും മീഡിയൻ വീണ്ടും അർത്ഥം അതുകൊണ്ടാണ് ഈ രീതിയെ മെത്തേഡ് ആൻഡ് മീഡിയൻസ് എന്ന് വിളിക്കുന്നത് ശരിയാണ് അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ ആ ഉദാഹരണം ഉപയോഗിച്ച് ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചതെന്തും ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾ അവരുടെ x കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് പോയിന്റുകൾ അടുക്കുന്നു നമുക്ക് മീഡിയൻ നിർവ്വഹിക്കാനോ x നെ സംബന്ധിച്ച് മീഡിയൻ കണക്കുകൂട്ടാനോ താൽപ്പര്യമുണ്ടെന്ന് കരുതുക P Xആണ് ശരാശരി എങ്കിൽ അതിനാൽ പി എക്സിന്റെ ഇടതുവശത്തുള്ള എല്ലാ പോയിന്റുകളും ഒരു ഇടത് ഉപവിഭാഗമായ പി ലെഫ്റ്റ് പി എൽ എന്നതിലേക്ക് നിയോഗിക്കുന്നു വലതുവശത്തുള്ള എല്ലാ പോയിന്റുകളും പി ആർക്ക് നൽകിയിരിക്കുന്നു ഇവയിൽ ഓരോന്നിനും ഞാൻ ശരാശരി കാണിച്ചതുപോലെ ഞങ്ങൾ കണക്കുകൂട്ടുകയും അവയെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആവർത്തിച്ച് പോകുക ആദ്യം നിങ്ങൾ ഒരു ലംബ വിഭജനം നടത്തുക തുടർന്ന് ഒരു തിരശ്ചീനവും പിന്നെ ലംബവുംഇത് ആവർത്തിച്ച് നിങ്ങൾ അതിലൂടെ കടന്നുപോകുന്നു അതിനാൽ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ പ്രക്രിയ വിശദീകരിക്കും ഇപ്പോൾ നിങ്ങളുടെ H ട്രീ X ട്രീഅൽഗോരിതങ്ങൾ പോലെ അതിനാൽ ഞങ്ങൾ തടസ്സങ്ങൾ അവഗണിക്കുന്നു ക്ലോക്ക് ട്രീ സ്ഥാപിക്കുന്ന പാളിയിൽ തടസ്സങ്ങളുണ്ടെന്ന് ഞങ്ങൾ പരിഗണിക്കുന്നില്ല കാരണം നിങ്ങൾ ക്ലോക്കുകളെ ശീർഷങ്ങളായി നൽകേണ്ട കൃത്യമായ പോയിന്റുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ എന്റെ ക്ലോക്ക് ട്രീ എച്ച് ട്രീയിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടും അത് നേർരേഖയിലാകില്ല ചില അരികുകൾ ചരിഞ്ഞ പോയിന്റുകളായിരിക്കും എവിടെയും ശരിയായിരിക്കാം പതിവായി ഇടം നൽകേണ്ടതില്ല അതിനാൽ ഇവയിൽ ഓരോന്നും നിങ്ങൾക്ക് നോൺ റെക്റ്റിലൈനർ വയറുകൾ ചരിഞ്ഞ വയറുകൾnon rectilinear wires slanted wiresതിരശ്ചീനവും ലംബവും ആക്കി മാറ്റാൻ കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഓപ്ഷണൽ ഘട്ടമാണ് നിങ്ങൾ മുഴുവൻ പാളിയും ഒറ്റ ലെയറിൽ വെക്കുകയാണെങ്കിൽ അത് ആവശ്യമില്ല ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം അതിനാൽ ഞാൻ ഒരു ഉദാഹരണം സംഖ്യാപരമായി തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇത് ഡയഗ്രാമാറ്റിക്കലായി കാണിക്കുന്നു ഞാൻ സംസാരിച്ച രീതി പോലെ 16 പോയിന്റുകൾ ഉണ്ട് അതിനാൽ x ദിശയിൽ നിങ്ങൾ x ശരാശരി കണക്കാക്കുന്നു അതിനാൽ ചുവന്ന പോയിന്റ് നിങ്ങളുടെ എക്സ് മീഡിയൻ ആണ് മീഡിയൻ നിങ്ങൾ x മീഡിയൻ കണക്കുകൂട്ടുന്നു റെഡ് പോയിന്റ് x മീഡിയൻ ആണ് അതിനാൽ നിങ്ങൾ ചെയ്യുന്നതെന്താണ് നിങ്ങൾ ലംബമായി ഒരു വിഭജനം നടത്തുക x നെ അതാതുമായി x മീഡിയനിലേക്ക് വിഭജിക്കുക നിങ്ങൾ അത് പരീക്ഷിക്കണം അതിനാൽ ഇടതുവശത്ത് നിന്ന് 8 പോയിന്റുകളും വലതുവശത്ത് നിന്ന് 8 പോയിന്റുകളും ഉണ്ടാകും ഇടത് വലത് ഉപസെറ്റുകൾക്കുള്ള പ്രക്രിയ നിങ്ങൾ ആവർത്തിക്കുന്നു പക്ഷേ ഇപ്പോൾ x ഉപയോഗിച്ച് അല്ല y കൊണ്ട് അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഉദാഹരണത്തിലെന്നപോലെ അതിനാൽ ഇപ്പോൾ ഇടത് ഉപവിഭാഗത്തിൽ നിങ്ങൾക്ക് 4 പോയിന്റുകൾ ഉണ്ട് നിങ്ങൾ അതേ കാര്യം y കൊണ്ട് ആവർത്തിക്കുന്നു അതിനാൽ 7 5 3 2 അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പാർട്ടീഷൻ ചെയ്താൽ 2 3 1 ൽ ആയിരിക്കും 5 5 7 ആയിരിക്കും മറ്റ് അതിനാൽ ഇതുപോലുള്ള ഒരു വിഭജനം ഉണ്ടാകും അതുപോലെ ഈ വശത്ത് 2 4 5 7 അതിനാൽ വിഭജനം ഇതുപോലെ ആയിരിക്കും അതിനാൽ ഈ ഉദാഹരണത്തിൽ ഇവിടെയും അതുതന്നെ സംഭവിക്കും അവിടെ ഞാൻ പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും പിണ്ഡത്തിന്റെ കേന്ദ്രം കണക്കുകൂട്ടുന്നു എന്നാൽ ഇപ്പോൾ ബഹുമാനത്തോടെ y മീഡിയൻ അതിനാൽ ഇത് നിങ്ങളുടെ വൈ മീഡിയൻ ആയിരിക്കാം ഇത് നിങ്ങളുടെ വൈ മീഡിയൻഒരേ ലംബ തലത്തിൽ ആയിരിക്കില്ല ഇവയുടെ മീഡിയനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ മീഡിയനിൽ ചേരുന്നു 2 അപ്പോൾ നിങ്ങൾ ഇതും ഇതിലും ഒരു വിഭജനം നടത്തുക ആവർത്തിച്ച് തുടരുക ഞാൻ നിങ്ങൾക്ക് അവസാന പരിഹാരം കാണിച്ചുതരുന്നു അതിനാൽ നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ ചെയ്യുക തുടർന്ന് ഇത് ഇതുപോലെ ചെയ്യുക 4 ഘട്ടങ്ങൾ കൂടി നിങ്ങൾക്ക് ഇത് ശരിയാകും ഓരോ ഉപവിഭാഗത്തിലും ഒരൊറ്റ പോയിന്റ് അടങ്ങിയിരിക്കും അവയെല്ലാം ചില ആർക് ബന്ധിപ്പിക്കപ്പെടും അതിനാൽ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന കമാനങ്ങളോ അരികുകളോ തിരശ്ചീനമായും ലംബമായും മാത്രമല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവ ഏകപക്ഷീയവും ആകൃതികളും വലുപ്പങ്ങളും ആകാം പക്ഷേ നിങ്ങൾ ഒടുവിൽ അവയെ പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവയെ പിന്നീട് തിരശ്ചീനമായി ലംബമായി പരിവർത്തനം ചെയ്യാൻ കഴിയും എന്നാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് ലഭിച്ചു അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രാരംഭ പോയിന്റുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ട്രീ എംബഡിംഗ്ലഭിച്ചു അത് ഉറപ്പാക്കും എല്ലാ കൈകളുടെയും നീളം വലുപ്പത്തിൽ തുല്യമാണെന്ന് ഉറപ്പാക്കുക നിങ്ങൾ മാർഗ്ഗങ്ങളും മീഡിയനുകളും കണക്കുകൂട്ടുന്ന രീതി കാരണം ഇത് ഉറപ്പുവരുത്തും അതാണ് ഓരോ വൃക്ഷത്തിന്റെയും വിഭാഗത്തിന്റെ നീളം ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ആരംഭിച്ച് 2 വലുപ്പങ്ങൾ തുല്യമായ ഒരു വൃക്ഷം നിങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ കൂടാതെ ഉയർന്ന തലത്തിലുള്ള മരവുമായി സംയോജിപ്പിക്കാൻ 2 മരങ്ങൾ ഉപയോഗിക്കുക വീണ്ടും 2 വശങ്ങൾ തുല്യമാണ് അത് നിങ്ങൾ ആവർത്തിക്കുന്ന അതേ രീതിയാണ് ഇത് അടിസ്ഥാനപരമായി മുകളിൽ നിന്നുള്ള സമീപനമാണ് മൊത്തത്തിലുള്ള പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ അവയെ വിഭജിക്കാൻ ശ്രമിക്കുന്നു അവയെ വിഭജിക്കുക ഓരോ പാർട്ടീഷനും ഒരൊറ്റ പോയിന്റ് ഉൾക്കൊള്ളുന്നതുവരെ വിഭജിക്കുക നിങ്ങൾ ഇതിനകം വൃക്ഷം ശരിയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനാൽ ഞങ്ങൾക്ക് സമാനമായ ഒരു ബദൽ രീതി ഉണ്ട് പക്ഷേ അത് ഒരു പിന്തുടരുന്നു ഒരു താഴെയുള്ള ഫാഷൻ പിന്തുടരുന്നു മുകളിൽ നിന്ന് താഴെയുള്ള ഈ MMM ൽ നിന്ന് വ്യത്യസ്തമായി ഒരു പൊരുത്തം എന്ന ആശയം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു അതിനാൽ പൊരുത്തപ്പെടുത്തൽ എന്നത് ഗ്രാഫ് സിദ്ധാന്തത്തിൽ നിന്നുള്ള ഒരു ആശയമാണ് അതിനാൽ പൊരുത്തം എന്താണെന്ന് ആദ്യം നമുക്ക് വിശദീകരിക്കാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർവചനം പരിചിതമല്ല എനിക്ക് ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക 8 ശീർഷകങ്ങൾ ഉണ്ട് അവ ചില അരികുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുക അതിനാൽ 8 ലംബങ്ങളുണ്ട് അതിനാൽ പൊരുത്തം എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും നിർവ്വചിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പൊരുത്തം എന്താണ് പൊരുത്തം പൊരുത്തപ്പെടുത്തൽ ഒന്നുമല്ല ഒരു കൂട്ടം അരികുകൾ പിന്നെ ചില ആവശ്യകതകൾ ഉണ്ട് നിങ്ങളുടെ ആദ്യ ആവശ്യകത നിങ്ങൾ എല്ലാ അഗ്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം അരികുകൾ തിരഞ്ഞെടുക്കണം രണ്ടാമതായി ഒന്നിലധികം തവണ ശീർഷകം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിനാൽ ഈ ഉദാഹരണത്തിനായി വളരെ വ്യത്യസ്തമായ പൊരുത്തങ്ങൾ ഉണ്ടാകാം സാധ്യമായ ഒരു പൊരുത്തം ഇതായിരിക്കാം എന്ന് പറയട്ടെ നിങ്ങൾ ഈ അറ്റം എടുക്കുക നിങ്ങൾ ഈ വായ്ത്തല എടുക്കുക നിങ്ങൾ ഈ വായ്ത്തല എടുക്കുക നിങ്ങൾ ഈ വായ്ത്തല എടുക്കുക അതിനാൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും പൊരുത്തം പരീക്ഷിക്കാം മറ്റൊരു പൊരുത്തം ആകാം നിങ്ങൾ ഈ അറ്റം എടുക്കും നിങ്ങൾ ഈ അറ്റം എടുക്കുന്നു നിങ്ങൾ ഈ അറ്റം എടുക്കുന്നു അതിനാൽ സാധ്യമായ ഒന്നിലധികം പൊരുത്തങ്ങൾ ഉണ്ടാകാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ 2 സാധ്യമായ പൊരുത്തങ്ങൾ കാണിച്ചു അതിനാൽ ഒരു പൊരുത്തം അരികുകൾ 1 2 7 8 5 6 3 എന്നിവ ഉൾക്കൊള്ളുന്നു ചുവപ്പ് അടയാളപ്പെടുത്തിയതും മറ്റൊന്ന് പച്ച അടയാളപ്പെടുത്തിയതുമാണ് നമുക്ക് മറ്റൊരു പൊരുത്തം പറയാം 2 3 1 8 6 7 4 5 അതിനാൽ അത്തരം ഒന്നിലധികം പൊരുത്തങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏറ്റവും താഴ്ന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു കൂട്ടം പോയിന്റുകൾ ഉണ്ട് ഇവ ക്ലോക്ക് ടെർമിനലുകളാണ് ഞങ്ങളുടെ പൊരുത്തം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനായി മൊത്തം ചില അറ്റങ്ങൾ ചുരുങ്ങിയത് മാർഗ്ഗങ്ങളുടെയും മീഡിയനുകളുടെയും രീതിയിൽ നിങ്ങൾ കാണുന്നു ഞങ്ങൾ എല്ലാ പോയിന്റുകളും മുകളിൽ നിന്ന് ആരംഭിക്കുന്നു ക്രമേണ അവയെ വിഭജിക്കുന്നു ഞങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വിപരീത ദിശയിലാണ് നീങ്ങുന്നത് ഞങ്ങൾ എല്ലാ പോയിന്റുകളിലും ആരംഭിക്കുന്നു ഞങ്ങൾ ഒരു പൊരുത്തം കണ്ടെത്തുന്നു ഞങ്ങൾ 2 പോയിന്റുകൾ 2 2 ബന്ധിപ്പിക്കുന്നു അതായത് വയറുകളുടെ ആകെ നീളം കുറഞ്ഞത് അതിനാൽ സാധ്യമായ എല്ലാ പൊരുത്തങ്ങൾക്കും ഇടയിൽ ഏറ്റവും കുറഞ്ഞ വലുപ്പമുള്ള ഒരു പൊരുത്തം ഞങ്ങൾ കണ്ടെത്തുന്നു ഈ ഓരോ പൊരുത്തത്തിനും ഉദാഹരണത്തിന് ഞാൻ ചുവപ്പ് എടുത്താൽ നിങ്ങൾ ചുവപ്പ് എടുത്തതാണെന്ന് കരുതുക എന്നാൽ ഈ പൊരുത്തങ്ങൾ ഓരോന്നും മധ്യ പോയിന്റുകൾ നന്നായി കണ്ടെത്തുന്നു അതിനാൽ ഇപ്പോൾ യഥാർത്ഥ 8 ശീർഷകങ്ങൾ മറക്കുക ഇപ്പോൾ ഇവ എന്റെ പുതിയ ശീർഷകങ്ങളാണ് നമുക്ക് അതിനെ v 1 2 എന്ന് വിളിക്കാം നമുക്ക് അതിനെ 7 8 എന്ന് വിളിക്കാം ഇവയാണ് എന്റെ 4 ശീർഷങ്ങൾ 5 6 3 എന്നിങ്ങനെ 4 ഇവയിൽ നിങ്ങൾ പ്രക്രിയ ആവർത്തിക്കുന്നു അതിനാൽ ഈ 4 ൽ നിങ്ങൾ വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കുന്നു നിങ്ങൾ ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഒരുതരം പൊരുത്തം കണക്കുകൂട്ടുന്നു അതിനാൽ ഇതും ഇതും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടായേക്കാം മറ്റ് പൊരുത്തം ഇതും ഇതും പറയട്ടെ അതിനാൽ നിങ്ങൾ അതനുസരിച്ച് ശീർഷങ്ങളെ ബന്ധിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ കാണിക്കുന്ന പ്രക്രിയ അതിനാൽ ഇത് വ്യക്തമാകും പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ സ്ലൈഡിലേക്ക് മടങ്ങി ഇവിടെ എന്താണ് എഴുതിയതെന്ന് കാണുക ഞാൻ ചിത്രീകരിച്ച അതേ കാര്യം അതിനാൽ എൻ സിങ്കുകളുടെ ഏറ്റവും കുറഞ്ഞ ചെലവ് പൊരുത്തം ഞങ്ങൾ ആവർത്തിച്ച് നിർണ്ണയിക്കുന്നു N എന്നത് ഒരു സമവാക്യമാണെന്ന് നിങ്ങൾ areഹിക്കുന്നു അതായത് N എൻഡ് പോയിന്റുമായി പൊരുത്തപ്പെടുന്ന N ബൈ 2 ലൈൻ സെഗ്മെന്റുകൾ നിങ്ങൾ കണ്ടെത്തുന്നു ഞാൻ എടുത്ത ഉദാഹരണം നിങ്ങൾ കാണുന്നു ഞങ്ങൾക്ക് ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു ഞങ്ങൾ അരികുകളുടെ ഉപവിഭാഗം എടുക്കുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു കൂട്ടം പോയിന്റുകളുണ്ട് ഓരോ ജോഡി ലംബങ്ങൾക്കും ഇടയിൽ ഒരു അരികുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ എല്ലാ കണക്ഷനും സാധ്യമാണ് അതിൽ നിന്ന് ഞാൻ ഏറ്റവും ചെറിയ രീതി കണ്ടെത്തുന്നു ശരിയാണ് അതിനാൽ എല്ലാ N എൻഡ് പോയിന്റുകളുംഉൾക്കൊള്ളുന്ന N ബൈ 2 ലൈൻ സെഗ്മെന്റുകൾഞങ്ങൾ കണ്ടെത്തുന്നു ഞാൻ കാണിച്ചിരിക്കുന്നതുപോലെ ഓരോ പൊരുത്തത്തിനും ശേഷം ഒരു മദ്ധ്യ പോയിന്റ് ഞങ്ങൾ കണ്ടെത്തുന്നു ഇത് കുറച്ച് സമയം ടാപ്പിംഗ് പോയിന്റ്എന്നറിയപ്പെടുന്നു അങ്ങനെ 0 ചരിവ് സംരക്ഷിക്കാൻ അതിനാൽ ഈ N ബൈ 2 ടാപ്പിംഗ് പോയിന്റുകൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഇൻപുട്ട് ഉണ്ടാക്കും ഞാൻ പറഞ്ഞതേയുള്ളൂ അതിനാൽ നമുക്ക് ഇത് വീണ്ടും ഉണർത്താം ഇവിടെ ഞങ്ങൾ അതേ ഉദാഹരണം പരിഗണിക്കുന്നു 16 പോയിന്റുകളുടെ ഒരു സെറ്റ് ഉണ്ട് അതിനാൽ എംഎംഎം അൽഗോരിതം പോലുള്ള ഒരു പാർട്ടീഷനിംഗ് ആരംഭിക്കുന്നതിന് പകരം ഏറ്റവും ചെറിയ പൊരുത്തം കണ്ടെത്തി ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ചെറിയ പൊരുത്തം ഇതാണ് എന്ന് കരുതുക ഇതാണ് പൊരുത്തപ്പെടുത്തൽ അതിനാൽ ഞാൻ അവയെ അനുബന്ധ അറ്റങ്ങളാൽ ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വരച്ച ഓരോ വരകൾക്കും ചുവപ്പുനിറം കാണിച്ചതിന് ശേഷം ടാപ്പിംഗ് പോയിന്റുകൾ ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ടാപ്പിംഗ് പോയിന്റുകൾ ഈ ചുവന്ന സർക്യൂട്ടുകളായി കാണിക്കുന്നു നിങ്ങൾ ആവർത്തിക്കുന്നത് തുടരുക ഈ 4 4 8 ടാപ്പിംഗ് പോയിന്റുകൾക്കായി വീണ്ടും ഒരു പൊരുത്തം കണ്ടെത്തുക എന്റെ പൊരുത്തം ഇപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ പൊരുത്തമെന്ന് കരുതുക അതിനാൽ ഈ 4 അരികുകൾക്കുള്ള മധ്യ പോയിന്റുകളോ ടാപ്പിംഗ് പോയിന്റുകളോ വീണ്ടും കണ്ടെത്തുക അതിനാൽ ഒരു പൊരുത്തം വീണ്ടും ചെയ്യുക ഇത് ആവർത്തിക്കുക നമുക്ക് 0 സ്കൂ ക്ലോക്ക് റൂട്ടിംഗിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഞങ്ങൾ ഇവിടെ വിശദമായി പോകുന്നില്ല പിന്നീട് കാലതാമസവും ശബ്ദവും സർക്യൂട്ടുകളും കണക്കാക്കുമ്പോൾ ഞങ്ങൾ അതിലേക്ക് മടങ്ങിവരും അതിനാൽ ഇവിടെ ഞങ്ങൾ വയറുകളുടെ ജ്യാമിതീയ ദൈർഘ്യം പരിഗണിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാന തത്വം അതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ RC കാലതാമസം കണക്കാക്കുന്നു നീളം മാത്രമല്ല ഒരു അരികിലൂടെയുള്ള കാലതാമസം ദൈർഘ്യത്തിന് ആനുപാതികമാണ് എന്നാൽ ഒരു പാതയിലൂടെ അത് ആവർത്തിച്ച് നിർവ്വചിക്കാവുന്നതാണ് അതിനാൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചില ലളിതമായ കണക്കുകൂട്ടലുകൾ ഞാൻ ഇവിടെ കാണിച്ചുതരാം അതിനാൽ അടിസ്ഥാന തത്വം താഴെയുള്ള സമീപനം പോലെയാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ച ആർജിഎം സമീപനം പക്ഷേ ടാപ്പിംഗ് പോയിന്റുകളുടെ നിർണ്ണയത്തിൽ മാത്രമാണ് വ്യത്യാസം അതിനാൽ നിങ്ങൾ ടാപ്പിംഗ് പോയിന്റുകൾ നിർണ്ണയിക്കുമ്പോൾ ഞങ്ങൾ മധ്യ പോയിന്റ് കണ്ടെത്തുന്നില്ല പക്ഷേ ഞങ്ങൾ ഒരു തരത്തിലുള്ള റിയലിസ്റ്റിക് കാലതാമസം മോഡൽ ഉപയോഗിക്കുന്നു ഈ എൽമോർ കാലതാമസം മോഡൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന കാലതാമസ മോഡലുകളിൽ ഒന്നാണ് ഇത് തികച്ചും യഥാർത്ഥ കാലതാമസം നൽകുന്നു അതേ സമയം വളരെയധികം കണക്കുകൂട്ടൽ ഉപയോഗിക്കുന്നില്ല അതിനാൽ ടാപ്പിംഗ് പോയിന്റുകൾ കണ്ടെത്താൻ ഞങ്ങൾ ഈ എൽമോർ കാലതാമസം മോഡൽ ഉപയോഗിക്കുന്നു ചില സമയങ്ങളിൽ ഉപവൃക്ഷങ്ങളിലുടനീളമുള്ള കാലതാമസവുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് വയർ ദീർഘിപ്പിക്കൽ നടത്തേണ്ടതായി വന്നേക്കാം എൽമോർ കാലതാമസ മാതൃക കാരണം ഒരു ഭാഗം മറ്റൊന്നിനേക്കാൾ വളരെ വേഗതയുള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് മന്ദഗതിയിലാക്കാൻ അവയെ തുല്യമാക്കുന്നതിന് നിങ്ങൾ കൂടുതൽ സമയം ഉണ്ടാക്കേണ്ടിവരാം എൽമോർ കാലതാമസ മാതൃക കാരണം ഒരു ഭാഗം മറ്റൊന്നിനേക്കാൾ വളരെ വേഗതയുള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് മന്ദഗതിയിലാക്കാൻ അവയെ തുല്യമാക്കുന്നതിന് നിങ്ങൾ കൂടുതൽ സമയം ഉണ്ടാക്കേണ്ടിവരാം അതിനാൽ ഒന്നുകിൽ താഴെ പറയുന്നവയാണ് അതായത് നിങ്ങൾക്ക് 2 ഉപവൃക്ഷങ്ങളുണ്ട് ടാപ്പിംഗ് പോയിന്റ്കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് തമ്മിൽ ഒരു ബന്ധമുണ്ട് അതിനാൽ അവയിലൊന്നിന്റെ നീളം z ആണ് മറ്റൊന്ന് 1 മൈനസ് z lആണ് അതിനാൽ ഈ വരികളിൽ ഓരോന്നും നിങ്ങൾ പ്രതിരോധവും കപ്പാസിറ്റൻസും അടിസ്ഥാനമാക്കി മോഡൽ ചെയ്യുന്നു ഈ എൽമോർ കാലതാമസ മോഡൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും ഈ 2 കാലതാമസങ്ങൾ ഏകദേശം തുല്യമാണ് എന്ന് നിർണ്ണയിക്കാനുമുള്ള ഒരു രീതിയാണ് നിങ്ങൾ അതിനനുസരിച്ച് ടാപ്പിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കുക അതിനാൽ ഈ എൽമോർ കാലതാമസ മാതൃക നമുക്ക് നോക്കാം ലളിതമായ ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ചിത്രീകരിക്കുന്നു പ്രതിരോധങ്ങളും കപ്പാസിറ്റൻസുകളും വിതരണം ചെയ്തതായി കാണിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈൻഎനിക്ക് ഉണ്ടെന്ന് കരുതുക R C1 R2 C2 R2 C3 ഇത് ഇഷ്ടപ്പെടുന്നു അതിനാൽ എൽമോർ മോഡൽ അനുസരിച്ച് സ്രോതസ്സിൽ നിന്നുള്ള C1 അനുസരിച്ച് കാലതാമസം കണക്കാക്കാം C എന്നത് R1 ന്റെ കാലതാമസം മാത്രമാണ് എന്നാൽ C2 C എന്നത് R1 പ്ലസ് R2 ന്റെ കാലതാമസമാണ് R1 പ്ലസ് R2 പ്ലസ് R3 കാരണം C3 വൈകും അതിനാൽ അത് ഒരു ആവർത്തിച്ചുള്ള ഫോർമുലേഷൻ പോലെയാണ് R1 C1 R1 പ്ലസ് R2 C2 അവസാനം R1 R2 RN എല്ലാം ചേർന്ന് CN കൊണ്ട് ഗുണിച്ചാൽ അതിനാൽ ഒരു ആർസി ഗോവണിക്ക് ഇത് ഇതാണ് അതിനാൽ ഒരു പൊതു CMOS സർക്യൂട്ടിനായി അതിനാൽ ട്രാൻസിസ്റ്ററിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങൾക്ക് ഒരു പ്രതിരോധമായി മാതൃകയാക്കാം ചിലത് RCRCRC തരത്തിലുള്ള ഒരു ഗോവണി പോലെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഏതൊരു നെറ്റ്വർക്കും വലിച്ചിടുകയും വലിച്ചിടുകയും ചെയ്യാം അവിടെ നിങ്ങൾക്ക് കൃത്യമായ കണക്കുകൂട്ടൽ നടത്താൻ കഴിയും കാലതാമസം അതിനാൽ ഏത് ലോഹ പാളി പോളിസിലിക്കൺ പാളി ഡിഫ്യൂഷൻ പാളി metal layer polysilicon layer diffusion layerഎന്നിവ അനുസരിച്ചാണ് ലൈൻ പ്രവർത്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ട്രാൻസ്മിഷൻ ലൈനിന്പോലും നിങ്ങൾക്ക് അനുബന്ധ പ്രതിരോധവും കപ്പാസിറ്റൻസ് എസ്റ്റിമേറ്റുകളുംഉണ്ടായിരിക്കാം അതിനാൽ ഞങ്ങൾ പിന്നീട് ഇതിലേക്ക് വരും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആർ സി എൽമോർ കാലതാമസം മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ടെന്ന് ഊ ഹിക്കേണ്ടതാണ് അത് ന്യായമായ ഒരു നല്ല എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വളരെ കൃത്യമായ ഒരു രീതിയാണ് അത് ഉപയോഗിച്ച് നിങ്ങൾ ടാപ്പ് പോയിന്റുകൾ കണ്ടെത്തുന്നു അതിനാൽ ഇത് എൽമോർ കാലതാമസം മോഡൽ ഉപയോഗിച്ച് കാണിക്കുന്ന ഒരു ഡയഗ്രം മാത്രമാണ് അതിനാൽ ഒരു സാധാരണ ഉദാഹരണത്തിനായി ഒരു 0 സ്കൂ ക്ലോക്ക് നെറ്റ്വർക്ക് എങ്ങനെ കാണപ്പെടും അരികുകൾ തികച്ചും ക്രമരഹിതമാണെന്നും മറ്റും നിങ്ങൾ കാണുന്നു അതിനാൽ വ്യതിയാനത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ക്ലോക്ക് ട്രീ ബഫറിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാൽ ഞാൻ ഇതിനകം സംസാരിച്ച ചിലത് പോലെ ജ്യാമിതീയ ക്ലോക്ക് ട്രീ പ്രാരംഭ ബഫറിംഗ് ഉൾപ്പെടുത്തൽ ബഫറിന്റെ വലുപ്പംgeometric clock tree initial buffering insertion sizing of the bufferഎന്നിവ പോലുള്ള നിരവധി ഒപ്റ്റിമൈസേഷൻഘട്ടങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചില ബഫറുകൾ നിങ്ങൾക്ക് ചെറുതും വലുതും വയറുകളുടെ വീതിയും പാമ്പും ഉണ്ടാക്കേണ്ടി വന്നേക്കാം പാതയിലൂടെ ഒരു വഴിതിരിഞ്ഞ് വയറിന്റെ നീളം കൂട്ടേണ്ടി വന്നേക്കാം അതിനാൽ പ്രക്രിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും അതിനാൽ വ്യതിയാനത്തിന്റെ ആഘാതം നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുമെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് ഒരു ക്ലോക്ക് റൂട്ടിംഗ് സൊല്യൂഷൻകൊണ്ടുവരാൻ കഴിയും അത് അത്തരം വ്യതിയാനങ്ങളുടെ സാന്നിധ്യം പോലും മൊത്തം ചരിവിൽ നിങ്ങൾക്ക് ഒരു പരിധി നൽകും അതിനാൽ ചില മൈക്രോപ്രൊസസ്സറുകൾക്കായി ക്ലോക്ക് മരങ്ങൾ ഐബിഎം പോലെ രൂപകൽപ്പന ചെയ്ത 2 കേസ് പഠനങ്ങൾ ഞങ്ങൾ വേഗത്തിൽ നോക്കുന്നു അവർ എന്താണ് ചെയ്തത് അവർ മുഴുവൻ ചിപ്പ് പ്രദേശത്തെയും 16 മുതൽ 64 വരെ മേഖലകളായി വിഭജിച്ചു അവയെ സെക്ടറുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ അവർ ഒരു ടോപ്പ് ലെവൽ H ട്രീ നിർമ്മിച്ചു അത് 2 ലെവൽ അല്ലെങ്കിൽ 3 ലെവൽ H ട്രീ ആണ് ഇത് 16 മുതൽ 64 വരെ സെക്ടർ ബഫറുകളുടെ ഒരു കൂട്ടം നയിക്കും അതിനാൽ സെക്ടർ ബഫറിന്റെഇല നിങ്ങളെ ഒരു മേഖലയിലേക്ക് നയിക്കും കൂടാതെ ഓരോ സെക്ടറിലും നിങ്ങൾക്ക് ശരിയായി ബന്ധിപ്പിക്കുന്നതിന് ധാരാളം ക്ലോക്ക് കാര്യങ്ങൾ ഉണ്ട് അവ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഈ സെക്ടർ ബഫറുകൾ ഓരോ മേഖലകളെയും കൈകാര്യം ചെയ്യുന്നു അതിനെ ട്യൂൺ ചെയ്യാവുന്ന മരംtunable tree എന്ന് വിളിക്കുന്നു ഈ സെക്ടറുകളിൽ ഓരോന്നിനും ഒരു ട്യൂൺ ചെയ്യാവുന്ന വൃക്ഷമുണ്ട് അവിടെ വയർ നീളവും മരങ്ങളുടെ വലുപ്പവും ട്യൂൺ ചെയ്യുന്നു അതിനാൽ ആ കാലതാമസം തുല്യമാക്കുകയും ഈ ട്യൂൺ ചെയ്യാവുന്ന മരങ്ങൾ ഒരു ഗ്രിഡ് നയിക്കുകയും ചെയ്യുന്നു ആ ഗ്രിഡ് മുഴുവൻ ചിപ്പിനും ക്ലോക്ക് ട്രീ സിഗ്നൽനൽകും ഞാൻ ഇത് 2 ലെവൽ സമീപനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഉയർന്ന തലത്തിലുള്ള ശൃംഖലയിൽ എച്ച് ട്രീ അടങ്ങിയിരിക്കുന്നു അത് താഴ്ന്ന ലേറ്റൻസിlower latencyനൽകുന്നു കുറഞ്ഞ പവർ ഏരിയഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു ആഗോള ചരിവും വളരെ നല്ലതാണ് താഴത്തെ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രിഡ് അടങ്ങിയിരിക്കുന്നു ഒരു സാധാരണ ഗ്രിഡിന്റെ പ്രയോജനം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്ലോക്ക് സിഗ്നൽ എടുക്കാം എന്നതാണ് കാരണം ഗ്രിഡ് എല്ലായിടത്തും ലഭ്യമാണ് ഗ്രിഡ് ഒരു സാധാരണ ഘടനയായതിനാൽ ഇത് കൂടുതൽ മികച്ച പ്രാദേശിക ചരിവ് ഉറപ്പാക്കുന്നു അതിനാൽ ഗ്രിഡിലുടനീളം നിങ്ങൾക്ക് ഗ്രിഡ് ഘടനയെ നയിക്കുന്ന ഒന്നിലധികം പോയിന്റുകൾ ഉള്ളപ്പോൾ അതിന്റെ വ്യതിയാന വ്യത്യാസങ്ങളും വളരെ കുറവാണ് ഈ വശം ആ അർത്ഥത്തിൽ നല്ലതാണ് അതിനാൽ ലോഹ പാളികൾ ഉപയോഗിക്കുന്ന പാളികൾ പോലെ മറ്റ് ചില ഒപ്റ്റിമൈസേഷനുകളും നടത്തുന്നു ഞാൻ ഇവയുടെ വിശദാംശങ്ങളുമായി പോകുന്നില്ല കാലതാമസം കുറയുന്ന വിധത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 8 സമാന്തര വയറുകൾക്ക് പകരം ഒറ്റ വരിക്ക് പകരം എനിക്ക് ചില ഗുരുതരമായ വയറുകൾ ലഭിച്ചു ഡിജിറ്റൽ കോർപ്പറേഷന്റെ ആൽഫ 21264 പ്രോസസ്സർdigital corporation's alpha 21264 processorമറ്റൊരു കേസ് പഠനത്തിലേക്ക് വളരെ വേഗത്തിൽ നോക്കുക അതിനാൽ അവിടെ ഞങ്ങൾ സമാനമായ 2 ലെവൽ കോൺഫിഗറേഷൻഉപയോഗിച്ചു ഒരു ഗ്രിഡിന് ശേഷം ഒരു ട്രീ അതിനാൽ ആഗോള മെഷ്ഞങ്ങൾ അതിനെ GCLK എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെയും അവർ 16 ക്ലോക്ക് ബഫറുകൾ ഓടിക്കാൻ ഒരു എച്ച് ട്രീ അല്ലെങ്കിൽ എക്സ് ട്രീ ഉപയോഗിക്കുന്നു ഈ ക്ലോക്ക് ബഫറുകൾ ഒരു ആഗോള ക്ലോക്ക് മെഷ് നയിക്കുന്നു അതിനാൽ ഐബിഎമ്മും ആൽഫാ സമീപനവും തമ്മിലുള്ള അടിസ്ഥാന സമീപനം സമാനമാണ് നാടകീയമായി ഇത് ഇങ്ങനെ കാണിക്കുന്നു അതിനാൽ ഒരു വൃക്ഷ ഘടനയുണ്ട് 16 ബഫർ ഓടിക്കുക 16 ബഫറുകൾ ഈ ഇടുങ്ങിയ ദീർഘചതുരം കാണിക്കുന്നു ഈ ബഫറുകളിൽ ഓരോന്നും അവർ ഒരു ഗ്രിഡ് ഓടിക്കുന്നു അതിനാൽ ഈ ഗ്രിഡ് ആ പ്രദേശത്തിന്റെ വലതുഭാഗത്തായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ ഗ്രിഡ് ലഭിച്ചുകഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിപ്പിൽ എവിടെയും ക്ലോക്ക് പോയിന്റുകളോ ടാപ്പിംഗ് പോയിന്റുകളോ എടുക്കാം അങ്ങനെ ഞങ്ങൾ ക്ലോക്ക് ട്രീ റൂട്ടിംഗിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾപവർ നെ കുറിച്ചും ഗ്രൌണ്ട് റൂട്ടിംഗിനെക്കുറിച്ചുംസംസാരിക്കും